ഹലോ സ്വാഗതം ഡിസൈൻതിങ്കിംഗ് കോഴ്സിലേക്ക് സ്വാഗതം ഞാൻ ഡിസൈൻതിങ്കിംഗ് എന്നതിൻറെ നാല് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളെ പറ്റി സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആദ്യം തന്മയിപ്പെടുക പിന്നെ വിശകലനം ചെയ്യുക പിന്നെ പ്രശ്നം പരിഹരിക്കുക അവസാനം ടെസ്റ്റ് ചെയ്യുക ഈ കോഴ്സിനെപറ്റി ആദ്യമായി വർഷങ്ങൾക്കു മുൻപ് ചിന്തിച്ചപ്പോൾഇതായിരുന്നു എൻറെ മനസ്സിലുള്ള നാല് സ്റ്റെപ്പുകൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുതന്നെയാണോ നാല് സ്റ്റെപ്പുകൾ കാലത്തിൻറെ പരീക്ഷ അതിജീവിക്കാൻ ഈ നാല് സ്റ്റെപ്പുകൾക്ക് സാധിക്കുമോ ഇതിനു മുന്നേ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്ക് യാത്ര ചെയ്യാനുള്ള അധികം താല്പര്യം ഉണ്ട് എല്ലാ സമയത്തും യാത്ര ചെയ്തു കൊണ്ടേയിരിക്കും എനിക്ക് യാത്ര ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് യാത്ര ചെയ്യുമ്പോൾ ആളുകളെ കാണുവാനും ഞാൻ ഒരു പഴയ ഗുഹയിലേക്ക് ട്രിപ്പ് നടത്തി ഞാൻ നിൽക്കുന്നത് 2200 വർഷംപഴക്കമുള്ള ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഗുഹയിൽ ആണ് വളരെ പഴക്കമുള്ള ഗുഹ ഞാൻ അത്ഭുതപ്പെടുന്നു ഈ ഗുഹകൾക്ക് ഡിസൈൻ തിങ്കിംഗ്മായി എന്ത് ബന്ധമാണുള്ളത്എന്ത് നമ്മൾ ഭജ ഗുഹകൾ എന്നതിൽ ആണ് നിൽക്കുന്നത് Pune എന്ന സ്ഥലത്തു നിന്ന് ഏകദേശം70 കിലോമീറ്റർ അകലെയാണ് 2200 വർഷംപഴക്കമുള്ളഭജഗുഹകൾ ഏകദേശംഇരുപതുഗുഹകൾ ഉണ്ട് ഇവ പ്രാർത്ഥന ധാന്യം സന്യാസിമാരുടെ വാസസ്ഥലം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഈ ഗുഹകളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുവാൻ ഞാൻ തീരുമാനിച്ചു ശ്രീബുദ്ധ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആളുകൾ വളരെയധികം സമയം ഈ ഗുഹകളിൽ ചെലവഴിച്ചിരുന്നതായി ഞാൻ കണ്ടെത്തി അവിടെ ബുദ്ധൻറെ പ്രധാനപ്പെട്ട ആശയങ്ങൾ കണ്ടു അദ്ദേഹം 49 ദിവസം ധാന്യത്തിൽ ആയിരുന്നു പിന്നെ മോക്ഷപ്രാപ്തി ഉണ്ടായി അദ്ദേഹം സാരാനാഥ്ലേക്ക് വന്നു ആദ്യത്തെ ശിഷ്യന്മാർ ഉണ്ടായി ഇന്ത്യയുടെ ഹൃദയഭാഗമാണ് സാരനാഥ് അദ്ദേഹം ആദ്യം 5 ശിഷ്യരുടെമുന്നിലാണ് പ്രഭാഷണം നടത്തിയത് 5 പേരും അതീവശ്രദ്ധയോടെ അദ്ദേഹത്തിൻറെ പ്രഭാഷണം കേട്ടിരുന്നു അതാണ് ഉത്തമസത്യങ്ങൾ എന്ന് വിളിക്കുന്നത് ഞാൻ എന്താണ് ഉത്തമസത്യങ്ങൾ എന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും ആദ്യത്തെ ഉത്തമസത്യം ദുഃഖംഅല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഈ ഭൂമിയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന തിരിച്ചറിവാണ് വേണ്ടത് മരണം ജനനം വാർദ്ധക്യം അസുഖങ്ങൾ ഭൌതിക സുഖങ്ങൾഅനുഭവിക്കാനുള്ള ആഗ്രഹം ഇഷ്ടപ്പെടുന്ന എന്തേലും നഷ്ടപ്പെടൽ ആണ് ദുഃഖം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് അദ്ദേഹം കണ്ടെത്തി ബുദ്ധിമുട്ടുകൾ ഒരു നാണയത്തിന് ഒരു വശം ആണെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ഒരു വശം സന്തോഷമാണ് ഇതാണ് ഒന്നാമത്തെ ഉത്തമ സത്യം ദുഃഖം

രണ്ടാമത്തെ ഉത്തമ സത്യം ദുഃഖകാരണം കണ്ടുപിടിക്കുന്നതുംമായി ബന്ധപ്പെട്ട ആണ് ദുഃഖത്തിന് കാരണം എന്താണ് വെള്ളച്ചാട്ടം മുകളിലെ ഒരു ഒരിടത്തുനിന്നുംവരുന്നു ദുഃഖം ഉണ്ടാവാനുള്ള കാരണം എന്താണ് ധ്യാനത്തിൽഇരിക്കുവാൻ കഴിയും നിങ്ങൾക്ക് വിദഗ്ധന്മാരുടെ സഹായം തേടാവുന്നതാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ സംസാരിക്കാൻ കഴിയും നിങ്ങളുടെ കുടുംബത്തിൻറെ സപ്പോർട്ട് കിട്ടും അങ്ങനെ ദുഃഖത്തിന് അടിസ്ഥാന കാരണം കണ്ടുപിടിക്കാൻ സാധിക്കും മൂന്നാമത്തെഉത്തമസത്യംദുഃഖനിവാരണംഎന്നുള്ളതാണ് ശ്രീബുദ്ധൻ റെ മൂന്നാമത്തെ ഉത്തമ സത്യം ദുഃഖത്തിന് ഉത്തമ കാരണം കണ്ടുപിടിച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ദുഃഖം നിവാരണംചെയ്യുന്നതാണ് ദുഃഖ നിവാരണ കാര്യത്തെപ്പറ്റി ആലോചിക്കുകയാണ് എങ്ങനെയാണ് ദുഃഖം ഇല്ലാതാക്കുക ധ്യാനത്തിൽ ഇരിക്കുവാൻ കഴിയും നിങ്ങൾക്ക് വിദഗ്ധന്മാരുടെ സഹായം തേടാവുന്നതാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ സംസാരിക്കാൻ കഴിയും നിങ്ങളുടെ കുടുംബത്തിൻറെ സപ്പോർട്ട് കിട്ടും അങ്ങനെ ദുഃഖ നിവാരണം ചെയ്യുവാൻ സാധിക്കും 2200 വർഷം പഴക്കമുള്ള ഗുഹകളാണ് ഞാൻ ഒരു സംഗീത ഉപകരണം കാണിച്ചുതരുന്നു കണ്ടുകാണും തബല സംഗീതം കേട്ട് കാണും 2200 വർഷങ്ങൾക്കു മുന്നേ എങ്ങനെയാണ് ഒരു തബല ഇരിക്കുന്നത് എന്നു നോക്കുക ഈ ചിത്രത്തിലേക്ക് നോക്കുക ഒരു വനിത തബല വായിക്കുന്നു നിങ്ങൾ കാണുന്നത് ഇന്ദ്രദേവൻ ഐരാവത് എന്ന ആനയുടെ മുകളിൽ സവാരിചെയ്യുന്നതാണ് സ്വർഗ്ഗലോകത്തിൽമുഴുവനായി സഞ്ചരിക്കാൻ ഇന്ദ്രദേവൻ ഐരാവത് എന്ന ആനയെഉപയോഗിക്കുന്നു അദ്ദേഹം സ്വർഗ്ഗലോകദേവനാണ് കാലാവസ്ഥ ദേവനാണ് എൻറെ വലതുഭാഗത്ത് നിങ്ങൾക്ക് സൂര്യദേവൻ ഒരു രഥത്തിൽ സഞ്ചരിക്കുന്ന ചിത്രം കാണാൻ പറ്റും നാലു കുതിരകളെ പൂട്ടിയ രഥത്തിൽ ആണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് അതിൻറെ ചക്രം കാണാം സൂര്യദേവനെ കാണാം അത്ഭുതകരമായിരിക്കുന്നു വളരെ നന്നായി ചിത്രം വരച്ചു വച്ചിരിക്കുന്നു നാലാമത്തെ ഉത്തമ സത്യം ദുഃഖനിവാരണ മാർഗ്ഗമാണ് ദുഃഖം അവസാനിപ്പിക്കൽ ആണ് ഇത് ദുഃഖം അവസാനിപ്പിക്കാൻ ഒരു വഴി കണ്ടെത്തി അവസാനിപ്പിക്കുന്നതാണ് നാലാമത്തെ ഉത്തമ സത്യം മോക്ഷം അഥവാ നിർവ്വാണംഅതാണ് നാലാമത്തെ ഉത്തമസത്യം ഒന്നുംകൂടി ആവർത്തിക്കാം ആദ്യത്തെ ഉത്തമ സത്യം ദുഃഖം രണ്ടാമത്തെ ദുഃഖ കാരണം മൂന്നാമത്തെ ഉത്തമ സത്യം ദുഃഖ നിവാരണം നാലാമത്തെ ഉത്തമ സത്യം ദുഃഖ നിവാരണ മാർഗ്ഗമാണ് ഇതും ഡിസൈൻ തിങ്കിംഗ്എന്നതും നമ്മിലുള്ള ബന്ധം എന്ത് എന്താണ് ബന്ധം ഡിസൈൻ തിങ്കിംഗ് എന്നതിൽ നിങ്ങൾ ആദ്യം തന്നെ തന്മയി ഭവംപ്പെട്ടു നിങ്ങളുടെ കസ്റ്റമറുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കസ്റ്റമറുടെ അനുഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് പോയി രണ്ടാമത് വിശകലനം ചെയ്തു ദുഃഖത്തിൻറെ മൂലകാരണം കണ്ടുപിടിച്ചു അത് പരിഹരിച്ചു അങ്ങനെ ബുദ്ധിമുട്ട് ഇല്ലാതായി ബുദ്ധിമുട്ട്പരിഹരിക്കാനുള്ള മാർഗം കണ്ടെത്തി നിങ്ങളുടെ സർഗാത്മകത നിങ്ങളുടെ ആശയങ്ങൾ അതെല്ലാം ഉപയോഗിച്ചിട്ടു നിങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു അവസാനം ടെസ്റ്റിംഗ് സ്റ്റേജ് ആയിരുന്നു ബുദ്ധിമുട്ടുകൾ എല്ലാം അവസാനിച്ചു അത്ഭുതമായിരിക്കുന്നു ഡിസൈൻതിങ്കിംഗ് 4 സ്റ്റേജുകൾ ശ്രീബുദ്ധൻ ഉപദേശിച്ച നാല് ഉത്തമ സത്യങ്ങളുംആയി ബന്ധപ്പെട്ടിരിക്കുന്നു 2200 വർഷംമുമ്പ് ഉള്ള തെളിവ് നമ്മൾക്ക് ഉണ്ട് അത്ഭുതമായിരിക്കുന്നു ഞാനല്ല ഈ നാലു ആദ്യം സ്റ്റേജുകൾ ഉദ്ദേശിച്ചത് 2200 വർഷങ്ങൾക്കു മുന്നേ തന്നെ ഈ നാല് സ്റ്റേജുകൾകണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു ഈ നാല് സ്റ്റേജുകൾ ആണ് ഡിസൈൻതിങ്കിംഗ്കോഴ്സ് ഉപയോഗിക്കുന്നത്